ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ഐഐടി റൂർക്കിയിലെ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ ക്യോട്ടോ ഡിപിആർഐയിൽ നിന്നുള്ള ഡോ ശുഭജ്യോതി സമദ്ദർ തയ്യാറാക്കിയ ഒരു പ്രഭാഷണമാണ് ഇന്ന് ഞാൻ നടത്താൻ പോകുന്നത് അദ്ദേഹത്തെ ലഭ്യമല്ലാത്തതിനാൽ അദ്ദേഹം ചെയ്തതിൽ നിന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നു ഞാൻ തയ്യാറെടുക്കാൻ പോകുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ബംഗ്ലാദേശിനെക്കുറിച്ചും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് അത് ദുരന്ത നിവാരണ സാങ്കേതികവിദ്യയുടെ വ്യാപനത്തെക്കുറിച്ചും പയനിയർമാർ നൽകുന്ന സംഭാവനകളെക്കുറിച്ചും ആണ് അതിനാൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതാണ് ഒന്നാമതായി ഇന്ന് നമ്മൾ ബംഗ്ലാദേശിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിൽ പലരും മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശിൽ ഈയിടെയായിരുന്നില്ല അടുത്തകാലത്തല്ല കുറഞ്ഞത് 1971 മുതലാണ് അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സുന്ദർബനിലെ വളരെ സമ്പന്നമായ ആവാസവ്യവസ്ഥയിലാണ് പൈതൃകം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഭാഗം മുഴുവൻ നിങ്ങൾക്ക് ഈ കായലുകളെല്ലാം ഉണ്ട് ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതാണ് അതിന്റെ ഒരു ഭാഗം തീരപ്രദേശത്തും കായലുമാണ് ഇതിന് വളരെ സമ്പന്നമായ ഒരു സാംസ്കാരിക പ്രാധാന്യമുണ്ട് ഒന്ന് ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാണ് കൂടാതെ ബംഗാളിൽ നിന്ന് വിഭജിക്കപ്പെട്ടതിനാൽ ഭാഗികമായി അതിന് ചിലത് ഉണ്ട് ബംഗാളിന്റെ വലിയ ഭാഗം ആയിരുന്നു ഇത് പശ്ചിമ ബംഗാളിലും അതേ സമയം ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്ലാമികതയിലും നിങ്ങൾ കാണുന്ന കാര്യങ്ങളുടെ വളരെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യങ്ങളുണ്ട് ഈ ബംഗ്ലാദേശ് 1971 മുതൽ സ്വതന്ത്രമായതിനുശേഷവും 1980 കൾ വരെയും ധാരാളം വികസന പരിപാടികൾ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ പ്രളയബാധിത പ്രദേശങ്ങളിലും ദുരന്തബാധിത പ്രദേശങ്ങളിലും വിവിധ ദുർബല സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുണിസെഫ് ബംഗ്ലാദേശ് സർക്കാർ മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഇവിടെയുള്ള പ്രധാന ആശങ്കകളിലൊന്ന് വെള്ളവും കുടിവെള്ളത്തിന്റെ അപകടസാധ്യതയുമാണ് കാരണം പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ തീരപ്രദേശത്ത് ലവണാംശം ഉള്ളതിനാൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും വിവിധ ആദിവാസി സമൂഹങ്ങളും തീരദേശ സമൂഹങ്ങളും എങ്ങനെ അതിജീവിക്കുന്നു അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അങ്ങനെയാണ് പല ഏജൻസികളും വ്യത്യസ്തമായ ശ്രമങ്ങളും നടത്തിയത് അവർക്ക് കൈ പമ്പുകൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നിവ നൽകുന്നതിനായി മുന്നോട്ട് വച്ചിട്ടുണ്ട് കൂടാതെ അവർ അടിസ്ഥാനപരമായി കുളത്തിലോ നദീജല സ്രോതസ്സുകളിലോ ഉള്ള ഉപരിതല ജലത്തെ ആശ്രയിക്കുന്നു എന്നാൽ 1980 മുതൽ 1990 കളിൽ കാലാവസ്ഥാ വ്യതിയാനമോ അതിന്റെ വ്യാവസായിക വശങ്ങളോ ഉള്ള മറ്റ് പല ഘടകങ്ങളും കാരണം ഇവിടെയാണ് അവർ 2 പ്രധാന പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചത് ഒന്ന് ഭൂഗർഭജല സ്രോതസ്സുകളിൽ നിന്നും ജലത്തിൽ നിന്നും വ്യക്തമാകുന്ന ആഴ്സനിക് മലിനീകരണം ലവണാംശം അതിനാൽ ഉപ്പുവെള്ളം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല ഓക്കേ നിങ്ങൾക്കറിയാവുന്ന വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം പക്ഷേ ദൈനംദിന ആവശ്യങ്ങൾക്ക് ബംഗ്ലാദേശി സമൂഹം പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണിതെന്ന് നിങ്ങൾക്കറിയാം നിവാസികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതിനാൽ ഈ ദുർബലമായ സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം എന്ന ചിന്ത അവിടെയാണ് ഒന്ന് ഇത് ധാരാളം വിട്ടുമാറാത്ത രോഗങ്ങളും വയറിളക്കവും സൃഷ്ടിക്കും മാത്രമല്ല മനുഷ്യവാസത്തിൽ മാത്രമല്ല സസ്യജന്തുജാലങ്ങളിലും ഇതിന് ചിലതരം ജൈവിക പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അവിടെയാണ് ചിത്രത്തിലേക്ക് കടന്നുവന്ന ഒരു തരം പുതുമ അവിടെയാണ് ജാപ്പനീസ് സാങ്കേതികവിദ്യയെന്ന നിലയിൽ ഒരുതരം നവീകരണമായ അമമിസു മഴവെള്ള സംഭരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജാപ്പനീസ് ഭാഷയിൽ അമ എന്നാൽ നദി മിസു ജലം അതിനാൽ ഇത് നദിയിലെ ജലസംഭരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു അവർ ചെയ്യാൻ ശ്രമിച്ചത് അതിനാൽ അവർ ഇത്തരത്തിലുള്ള ടാങ്കുകൾ നൽകാൻ ശ്രമിക്കുന്നു വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകൾ മഴവെള്ളം ശേഖരിക്കുക അവർ അത് 6 മാസം സൂക്ഷിക്കുന്നു അവർ അത് 6 മാസം സംഭരിക്കുന്നു തുടർന്ന് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും ഇത് അവർ വികസിപ്പിച്ചെടുത്ത ഒരുതരം സാങ്കേതികവിദ്യയാണ്

ആ പ്രത്യേക ഭൂമിശാസ്ത്രത്തിനും കാലാവസ്ഥയ്ക്കും ദുർബലമായ സാഹചര്യങ്ങൾക്കും ആവശ്യമായ നൂതനത്വങ്ങളിലൊന്നാണ് ഇത് ഇത്തരത്തിലുള്ള സാങ്കേതികവിദ്യ ആവശ്യമുള്ള വിവിധ ഗ്രാമീണ ഗ്രാമങ്ങളിൽ സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു ഇപ്പോൾ നിങ്ങൾ ഭൂപടവും ഈ പ്രദേശം മുഴുവനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവയെല്ലാം ഗുരുതരമായ ബാധിത പ്രദേശങ്ങളും മിതമായ ബാധിത പ്രദേശങ്ങളും നേരിയ ബാധിത പ്രദേശങ്ങളുമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കും നേരിയ തോതിൽ ബാധിച്ചതും വളരെ നേരിയ തോതിൽ ബാധിച്ചതും ബാധിച്ചിട്ടില്ലാത്ത സുരക്ഷിതമായ സൈറ്റുകളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് ആരംഭിച്ചത് മുഴുവൻ രാജ്യത്തേയും ആണ് ഈ സാങ്കേതികവിദ്യയെ എങ്ങനെ ഒരു വലിയ രാഷ്ട്രം മുഴുവൻ സജ്ജീകരിക്കാം എന്നതാണ് വെല്ലുവിളി അതിനാൽ അത് എല്ലാം ഒന്നിൽ നിന്ന് ആരംഭിക്കാം പക്ഷേ അത് കൂടുതൽ വ്യാപിക്കേണ്ടതുണ്ട് ആരാണ് ഇത് എടുക്കുക ആരാണ് ഈ ഇന്നോവറ്റോർസ് ആരാണ് ഈ പയനിയർമാർ ആരാണ് ഈ സാങ്കേതികവിദ്യയുടെ ഈ പ്രത്യേക കൈമാറ്റം വിശാലമായ സമൂഹത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് അത് ഉണ്ട് ഇതൊരു വെല്ലുവിളിയാണ് കാരണം ഒരു വശത്ത് ഞങ്ങൾ സംസാരിക്കുന്നത് വിവിധ കമ്മ്യൂണിറ്റികളെ പിടിച്ചെടുക്കുകയും അവരെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയും അവരെ തിരിച്ചറിയുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് എന്നാൽ ഈ ഉൽപ്പന്നത്തെ നമുക്ക് എങ്ങനെ വ്യാപിപ്പിക്കാം എന്നതിനെക്കാൾ വലിയ തോതിൽ കൊണ്ടുവരിക എന്നതാണ് വെല്ലുവിളി അദ്ദേഹത്തിന്റെ മുൻ ക്ലാസുകളിലും ഡോ ശുഭജ്യോതി സമദ്ദർ Dr Subhajyoti Samaddar ബംഗ്ലാദേശുമായുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ആഴ്സനിക് ഉള്ളടക്കത്തിന്റെ മറ്റൊരു വശം കൂടിയാണിത് നവീകരണത്തെ എങ്ങനെ വ്യാപിപ്പിക്കാം വെല്ലുവിളികൾ എന്തൊക്കെയാണ് അത് എങ്ങനെ വിലയിരുത്താം അതിനാൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഒരു നൂതനാശയം മാത്രമല്ല ഗ്രാമീണ ദരിദ്രരിലേക്ക് ഈ നവീകരണത്തെ വിശാലമായ കമ്മ്യൂണിറ്റികളിലേക്ക് എത്തിക്കുക എന്നതാണ് ശരി അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഈ പ്രക്രിയയെ എങ്ങനെ വ്യാപിപ്പിക്കാം ഇപ്പോൾ ഏത് ഉൽപ്പന്നവും അത് ടാങ്കാണെങ്കിലും അത് ഐഫോണാണെങ്കിലും മറ്റേതെങ്കിലും റിമോട്ട് ഡ്രൈവിംഗ് കാറാണെങ്കിലും സമൂഹത്തിന്റെ പ്രയോജനത്തിനായി സമൂഹത്തിലേക്ക് വരുന്ന ഏത് ഉൽപ്പന്നവും ശരിയാണ് വെള്ളം ശേഖരിക്കുന്ന ഒരു ടാങ്ക് മാത്രമല്ല എന്നാൽ ഒന്നാമതായി ഒരു കാര്യം നോക്കണം അത് എടുക്കണോ വേണ്ടയോ എന്നത് വളരെ അപകടകരമായ തീരുമാനമാണ് സങ്കൽപ്പിക്കുക നാളെ ആരെങ്കിലും പെട്രോളൊഴിച്ചല്ല വെറും വെള്ളത്തിൽ ഓടിക്കുന്ന ഒരു കാർ കണ്ടുപിടിച്ചുവെന്ന് സങ്കൽപ്പിക്കുക അപ്പോൾ സംഭവിക്കുന്നത് ആളുകൾ അതിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങും കാരണം അവർ അതിൽ വെള്ളം ഇടുകയും അവർ അത് ഓടിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവർക്ക് കുറച്ച് പണം ലാഭിക്കാം പക്ഷേ പിന്നീട് ഒരു വലിയ ആവാസവ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും വലിയ സ്വാഭാവിക വാസസ്ഥലത്തിനു എന്ത് സംഭവിക്കും അതിനാൽ ഒരു ചെറിയ കണ്ടുപിടുത്തം വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം അതുപോലെ ഒരു ഓട്ടോപൈലറ്റ് കാർ ഒരു ഇന്ത്യൻ റോഡിൽ കീഴടക്കുമ്പോൾ അത് ശരിയായി പരീക്ഷിച്ചില്ലെങ്കിൽ ഈ റിസ്ക് എങ്ങനെ എടുക്കണം ആദ്യം ആരംഭിക്കുന്ന വ്യക്തി വ്യക്തമായും വലിയ അപകടസാധ്യത എടുക്കുന്നു കാരണം അയാൾക്ക് അതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക രോഗം ഭേദമാക്കാൻ പരിഹരിക്കാൻ വിപണിയിൽ വരുന്ന ഒരു ലഹരിയായിരിക്കാം അത് എന്നാൽ അത് ഭാവിയിൽ എങ്ങനെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതിനാൽ സാധാരണയായി ഇത് നമ്മുടെ മാനുഷിക പ്രവണതയാണ് മറ്റുള്ളവർ എങ്ങനെ നടപ്പാക്കിയെന്ന് കാണാൻ നമ്മൾ ശ്രമിക്കുന്നു മറ്റുള്ളവർ എങ്ങനെ നടപ്പാക്കി അവർ ഓക്കേ ആണോ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് കാണാൻ നമ്മൾ ശ്രമിക്കുന്നു എല്ലാം മറക്കുക ചെറിയ കാര്യം എടുക്കുക നിങ്ങൾ ആമസോണിൽ നിന്ന് ചില ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണ് ഞാൻ നോക്കുമ്പോൾ അവരിൽ പലരും അവർ അവലോകനങ്ങൾ കാണുന്നു ഈ ഉൽപ്പന്നം എങ്ങനെയാണെന്ന് അവർ അവലോകനം ചെയ്യുന്നു ആ വിതരണക്കാരൻ എങ്ങനെയാണെന്ന് അവർ അവലോകനം ചെയ്യുന്നു സ്റ്റാർ റേറ്റിംഗുകൾ എന്താണ് ഇക്കാലത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ പോകുമ്പോൾ പോലും ആളുകൾ ഫീഡ്ബാക്ക് നോക്കുന്നത് ഞാൻ കണ്ടു കാരണം ആ ഫീഡ്ബാക്ക് പ്രക്രിയ നിങ്ങളോട് പറയുന്നതാണ് ഹോസ്പിറ്റൽ നന്നായി ചികിത്സിക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയാണ് നിങ്ങൾ വിവിധ നെറ്റ്വർക്കുകളിൽ നിന്ന് വരുന്ന വിവരങ്ങളുടെ ഒരു ഉറവിടത്തെയോ വിവരങ്ങളുടെ ഒരു തന്ത്രത്തെയോ ആണ് ഞങ്ങൾ ആശ്രയിക്കുന്നതെന്ന് അറിയുക അതിനാൽ ഇവിടെയാണ് വിവരങ്ങൾ തേടുന്നത് ഞങ്ങൾക്ക് ചില വിവരങ്ങൾ തേടാനും അത് വികസനമോ പ്രവർത്തനമോ പ്രോസസ്സ് ചെയ്യാനോ ഞങ്ങൾക്ക് കഴിയും അതിനാൽ ഞാൻ പുതിയ സാങ്കേതികവിദ്യ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയയാണ് കാരണം ഇത് വളരെ അപകടസാധ്യതയുള്ളതാണ് അനന്തരഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഈ വിവരങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ എങ്ങനെയാണ് വിവരങ്ങൾ തേടുന്നത് ഞങ്ങൾ അത് പ്രോസസ്സ് ചെയ്യുന്നു ഞങ്ങൾ അത് വികസിപ്പിക്കുന്നു മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സ്വന്തം വിശകലനം നടത്തുന്നു ഈ ടാങ്കുകൾ ഇമ്പ്ലിമെൻറ് ചെയ്യുന്നതിനായി ആരുടെയെങ്കിലും ഫീഡ്ബാക്ക് ഇത് ഉപയോഗിച്ച ഒരാൾക്ക് ചില അപകടസാധ്യതകൾ കുറയ്ക്കാനും കഴിയും മറ്റൊരാൾ നേരിട്ട ചില അപകടസാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചിതമാകും അല്ലെങ്കിൽ അവർ നേരിട്ട അനിശ്ചിതത്വങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയം ലഭിക്കും നേരത്തെ എടുത്തയാൾ മുതൽ ഇപ്പോൾ വൈകി എടുക്കുന്നവർ വരെ വിവരങ്ങൾ എങ്ങനെ പോകുന്നു ഇത് ഒരു തരം ബെൽ ഗ്രാഫാണ് അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയാത്തതിനാൽ നേരത്തെ ദത്തെടുക്കുന്നയാൾ എങ്ങനെയാണ് ഉയർന്ന അപകടസാധ്യത എടുക്കുന്നതെന്ന് അടുത്ത പാഠത്തിൽ ഞാൻ ചർച്ച ചെയ്യും വ്യക്തികൾ മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുകയും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുകയും ഒടുവിൽ തീരുമാനം മാറ്റുകയും ചെയ്യുന്നു അതിനാൽ ആരെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഈ ഉൽപ്പന്നം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം നടപ്പിലാക്കാൻ ഇത് എടുക്കുന്നതിനോ ആദ്യം അവർ വളരെ ആകൃഷ്ടരായിരുന്നു എന്നാൽ ഇത് അതിന്റെ അനന്തരഫലങ്ങളാണെന്നും ഇതിന് ഒരു പാർശ്വഫലമുണ്ടെന്നും അവർ മനസ്സിലാക്കിയാൽ തീരുമാനങ്ങൾ മാറ്റിയേക്കാം ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് വളരെ വിശ്വസനീയമല്ലാത്ത ഡാറ്റയാണ് ലഭിക്കുന്നത് പറയാൻ പ്രയാസമായ ധാരാളം വൈരുദ്ധ്യമുള്ള നിരവധി ഡാറ്റ ഉണ്ട് ധാരാളം വിവരങ്ങൾക്കൊപ്പം നാമും ആശയക്കുഴപ്പത്തിലായ അവസ്ഥയിലാണ് അതിനാൽ മുമ്പത്തെ ഇന്നോവേറ്റർ ഞങ്ങൾ അവരെ ഇന്നോവേറ്റർ എന്ന് വിളിക്കുന്നു കാരണം ഇത് ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇവരാണ് ഈ പ്രത്യേക ഉൽപ്പന്നം എങ്ങനെ പ്രവർത്തിക്കും എന്ന നിലയിൽ ഇത് എടുക്കാൻ അവർ ഉയർന്ന റിസ്ക് എടുത്തിട്ടുണ്ടാകാം അങ്ങനെയാണ് ആദ്യകാല ദത്തെടുക്കുന്നവർക്ക് ഫീഡ്ബാക്ക് എത്തിയത് അപ്പോൾ അടുത്ത നെറ്റ്വർക്ക് അത് ഒരു സുഹൃത്തായാലും അയൽക്കാരനായാലും ബന്ധുവായാലും അവരുടെ വ്യക്തിഗത അല്ലെങ്കിൽ നേരിട്ടുള്ള നെറ്റ്വർക്കുകൾ വഴിയുള്ള ഒരുതരം മൈക്രോ ലെവൽ നെറ്റ്വർക്കുകളെക്കുറിച്ചാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇതാണ് ബെൽ ഗ്രാഫ് വരാൻ പോകുന്നതിനെ കുറിച്ച് പിന്നെ അവസാനം മറ്റൊരു കൂട്ടർ വരുന്നു ആളുകൾ അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടു എന്ന് കാണാൻ ശ്രമിക്കുന്നു ഒടുവിൽ അവർ കൂടുതൽ യാഥാസ്ഥിതിക സമീപനത്തിലാണ് ഈ ഓപ്ഷൻ എങ്ങനെ പരീക്ഷിച്ചുവെന്ന് ഈ ഗ്രാഹ്യത്തിന്റെ ഗൌരവമായ പരിശോധനയ്ക്ക് ശേഷം അവർ അവിടെയാണ് ശ്രമിക്കുന്നത് പിന്നീട് അവർ അത് തീരുമാനിക്കാൻ ശ്രമിക്കുന്നു അവരെ സാധാരണയായി ലാഗർഡ്സ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഈ ആദ്യകാല ഭൂരിപക്ഷവും അവസാന ഭൂരിപക്ഷവും ഉണ്ട് ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഈ മികച്ച ഉപകരണം കണ്ടെത്തിയതിനെക്കുറിച്ചാണ് കാരണം അവർ ഇത് പരീക്ഷിച്ചുനോക്കും എന്നാൽ ഈ ഘട്ടത്തിൽ ഞാൻ ഇത് നേരത്തെ ഉപയോഗിച്ച് ഇത് പരീക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ മികച്ചതാണ് അതിനാൽ നിങ്ങൾക്കറിയാം അവർ ചിലപ്പോൾ പശ്ചാത്തപിക്കുന്നു ഇത് വിജയകരമാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇത് പരീക്ഷിക്കാതിരുന്നത് നല്ലതാണ് അതിനാൽ ഈ ലാഗർഡ്സ് വ്യക്തിഗതവും നേരിട്ടുള്ളതുമായ വ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട മൈക്രോ ലെവൽ നെറ്റ്വർക്കിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചത് ഇങ്ങനെയാണ് രണ്ടാമത്തേത് പരോക്ഷമായ നെറ്റ്വർക്കുകളുള്ള ഒരു മാക്രോ ലെവൽ നെറ്റ്വർക്കുകളുടേതാണ് ഞങ്ങൾ ഡൽഹിയിൽ ഉപയോഗിക്കുന്നത് എങ്ങനെ അത് എങ്ങനെ വിവിധ നഗരങ്ങളിലേക്കോ വിവിധ കമ്മ്യൂണിറ്റികളിലേക്കോ വ്യാപിക്കുന്നു ഇവിടെയാണ് മാക്രോ ലെവൽ നെറ്റ്വർക്കുകൾ വളരെ വ്യത്യസ്തമായ പരോക്ഷ ശൃംഖലകളും ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് എന്നാൽ ഇവ രണ്ടും വ്യത്യസ്ത തലത്തിലുള്ള വ്യാപനത്തിൽ സംഭാവന ചെയ്യുന്നു ഒന്ന് ഒരാൾ കൂടുതൽ വിശ്വസനീയമായ സ്ഥലത്ത് വളരെ അടുത്താണ് കാരണം ഐഐടി പോലുള്ള സ്ഥലത്ത് പോലും ആരെങ്കിലും വന്ന് പരിശോധിക്കാൻ കഴിയും ഞാൻ ജീവിക്കുന്നത് അവിടെയാണ് ഒരാൾ കമ്പ്യൂട്ടർ വാങ്ങുന്നു നിങ്ങൾ വാങ്ങി എന്താണ് ഫീഡ്ബാക്ക് ഞാൻ അത് എടുക്കട്ടെ എന്താണ് വില നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു ഈ സൌകര്യം എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഈ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള കോളുകൾ എനിക്ക് വരുന്നു അതുപോലെ നിങ്ങൾ വീണ്ടും ഒരു വലിയ ചിത്രം നോക്കുമ്പോൾ അത് ഡൽഹിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ റൂർക്കിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് മാക്രോ ലെവൽ നെറ്റ്വർക്കുകൾ വീണ്ടും പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾ അതിനെ ഇങ്ങനെയാണ് നോക്കിയത് ഇപ്പോൾ നമ്മൾ ഏറ്റവും നൂതനവും യാഥാസ്ഥിതികവുമായ ധാരണയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം കാണുകയാണെങ്കിൽ ഇവിടെ 5 സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുള്ള ഒരു വ്യക്തി A ആണ് അവനാണ് യഥാർത്ഥത്തിൽ അത് ആരംഭിക്കാനുള്ള റിസ്ക് എടുത്തത് തുടർന്ന് D എന്ന വ്യക്തിയിൽ അവൻ ഇപ്പോഴും ഒരു യാഥാസ്ഥിതികനാണ് എന്നാൽ അവന്റെ അവന്റെ ശൃംഖല പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവന്റെ ചുറ്റുപാടുകളെല്ലാം ഇപ്പോഴും സ്വന്തം ചിന്താരീതികളെ ആശ്രയിക്കുന്നു അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമെടുക്കും അതിനാൽ ആരാണ് കൂടുതൽ നൂതനമെന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്നയാൾ അത് പരീക്ഷിക്കാൻ ആ റിസ്ക് എടുക്കുന്നു ഒപ്പം ബി വ്യക്തിയും സി വ്യക്തിയും വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു ഇവിടെ വീണ്ടും അറിയാം ഈ സാഹചര്യത്തിൽ മറ്റ് ആളുകൾ ഇതിനകം എങ്ങനെ സ്വീകരിച്ചുവെന്നും ഒന്നുകിൽ ഈ വ്യക്തി മറ്റുള്ളവരെ സ്വാധീനിച്ചുവെന്നും അങ്ങനെ ക്രമേണ മാറുന്നു മറ്റ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിട്ടും അവൻ ഇപ്പോഴും സ്ഥിരതയുള്ളവനാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ യാഥാസ്ഥിതിക തലത്തിലേക്ക് വളരെ നൂതനമായ തലം ഇങ്ങനെയാണ് അതിന്റെ രണ്ടാമത്തെ വാദവും ഉണ്ട് കാലക്രമേണ എക്സ്പോഷറും ത്രെഷോൾഡും എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാം സമയം 1 ൽ ഈ ചെറിയ ഉദാഹരണത്തിൽ ഞങ്ങൾ പരാമർശിക്കുന്ന 2 റഫറൻസ് പോയിന്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കുള്ളത് പോലെ ഒന്ന് എ ഒന്ന് B ആണ് A ന് വീണ്ടും 5 സുഹൃത്തുക്കളും B യ്ക്ക് 5 സുഹൃത്തുക്കളും ഉണ്ട് അവർക്ക് അവരുടേതായ നെറ്റ്വർക്കുകളും ഉണ്ട് ഇത് ഈ ഡയഗ്രം വഴി നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു തരം കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ A യ്ക്ക് ചുറ്റും ഈ ടാങ്കുകൾ ഉപയോഗിക്കുന്ന 60 ആളുകളുടെ എക്സ്പോഷർ ഉണ്ട് B യ്ക്ക് അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ സമയ ഘട്ടം 2 ൽ വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ അവന്റെ കാര്യം നോക്കുമ്പോൾ A അത് സ്വീകരിച്ചു നിങ്ങൾ നോക്കുമ്പോൾ B അത് സ്വീകരിച്ചിട്ടില്ല സമയം 5 ഇപ്പോൾ എ സ്വീകരിച്ചു അത് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് വ്യാപിപ്പിച്ചു എന്നാൽ ഇപ്പോൾ ബി സ്വീകരിച്ചു അത് നോക്കുന്നതിന് 2 വഴികളുണ്ട് വളരെ പ്രാരംഭ ഘട്ടത്തിൽ റിസ്ക് എടുത്ത എയെ നമ്മൾ എങ്ങനെ സ്വീകരിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും നോക്കാം ഞങ്ങൾ വിളിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന ഒരു നൂതനമായ വ്യക്തിയിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം ഒരു മുഴുവൻ കമ്മ്യൂണിറ്റി മേഖലയിൽ ഒരു മാക്രോ തലത്തിൽ നൂതനമായ തുടക്കം കുറിച്ചത് അവനാണ് ബിയെ കൂടുതൽ യാഥാസ്ഥിതിക തലത്തിൽ നോക്കാം എന്നാൽ മറ്റൊരു അർത്ഥത്തിൽ നിങ്ങൾ എങ്കിൽ B യിൽ നോക്കൂ സമയം 5 ൽ പോലും അവന്റെ ഒന്നുമില്ല അവന്റെ 4 സുഹൃത്തുക്കൾ ഇതുവരെ ദത്തെടുത്തിട്ടില്ല പക്ഷേ അവൻ ഒരു പടി മുന്നോട്ട് പോയ ഒരാളാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ആ ബി യുടെ ഒരു മൈക്രോ ലെവൽ നോക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ നമുക്ക് അദ്ദേഹത്തെ മൈക്രോ ലെവലിൽ കൂടുതൽ ഇന്നൊവേറ്റീവ് എന്ന് വിളിക്കാം അതിനാൽ ടൈം ഫാക്ടറിൽ നിന്നും അതിന്റെ സ്കെയിൽ ഫാക്ടറിൽ നിന്നും അതിനെ നോക്കുന്നതിന് വ്യത്യസ്ത ധാരണകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഏത് തലത്തിലുള്ള നൂതനാശയങ്ങളെയാണ് ആരാണ് ഈ ഇന്നോവേറ്റർസ് ഈ ഇന്നോവേറ്റർസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ വിവരങ്ങളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുകയും കൂടുതൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന പയനിയർമാരാണ് ഞങ്ങൾ വിളിക്കുന്ന ഈ ഇന്നോവേറ്റർസ് വീണ്ടും മൈക്രോ ലെവൽ മാനദണ്ഡങ്ങളിൽ സാമൂഹിക സ്വാധീനം ചെലുത്തുന്ന നേരിട്ടുള്ള നെറ്റ്വർക്കുകൾ എന്നിവയുണ്ട് എന്നാൽ സോഷ്യൽ ലേണിംഗ് വഴിയുള്ള പരോക്ഷ ശൃംഖലയുള്ള മാക്രോ ലെവലിനെക്കുറിച്ച് സംസാരിക്കുന്ന സിസ്റ്റം നെറ്റ്വർക്കുകൾ അതിനാൽ ശുഭജ്യോതി സമദ്ദറും അദ്ദേഹത്തിന്റെ സംഘവും ബംഗ്ലാദേശിലെ ഏതോ വിദൂര പ്രദേശത്ത് ഒരു പ്രോജക്റ്റായി പ്രവർത്തിച്ചു ഈ ടാങ്കുകൾ എങ്ങനെ സജ്ജീകരിച്ചു എങ്ങനെയാണ് അവർ ഈ സർവേ നടത്തിയത് അങ്ങനെ നിർമ്മിച്ച ചില ടാങ്കുകൾ ഇവയാണ് അവർ അതിനായി ധാരാളം സർവേകൾ നടത്തി വിവിധ പങ്കാളികളുമായി അവർ ഇടപഴകുകയും കാരണങ്ങൾ എന്താണെന്നും ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് അവർക്ക് എങ്ങനെ പഠിക്കാം അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് എങ്ങനെയെന്നും മനസ്സിലാക്കി അഭിമുഖത്തിൽ അവർ നോക്കുന്ന വിവിധ വശങ്ങളാണിത് അതിനാൽ ദത്തെടുക്കുന്ന വിഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇത് ഓരോ വിഭാഗത്തിലെയും വ്യക്തിഗത നൂതനത്വവും ശതമാനവും കാണിക്കുന്ന ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ് 4 5 വശങ്ങളുണ്ട് ഞങ്ങൾ അവസാനം ചർച്ച ചെയ്തതുപോലെ 4 5 വശങ്ങളുണ്ട് ഇന്നോവറ്റെർസ് മുന്നിലും ലാഗ്ഗാർഡ്സ് പിന്നിലുമാണ് ഏർലി അഡോപ്റ്റെർസ് ഏർലി മജോറിറ്റി ലേറ്റ് മജോറിറ്റി അങ്ങനെ ഇത് ഒരു തരം ബെൽ ഷേപ്ഡ് കർവ് ആണ് പിന്നെ അവർ ചെയ്തത് ഒരു മൈക്രോ നെയ്ബർഹുഡ്ഡ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് അവർ മൈക്രോ ലെവലും മാക്രോ ലെവലും മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയാവുന്ന ഇത്തരത്തിലുള്ള പരിധി അവർ സജ്ജമാക്കി അവ ഏർലി അഡോപ്റ്റെർസ് ഏർലി മെഷേഡ് മജോറിറ്റി അഡോപ്റ്റെർസ് ലേറ്റ് മജോറിറ്റി ലഗഗാർഡ്സും ഈ ത്രെഷോൾഡും എന്താണ് ഈ ത്രെഷോൾഡ് വളരെ താഴ്ന്ന ത്രെഷോൾഡ് താഴ്ന്ന ത്രെഷോൾഡ് ഉയർന്ന ത്രെഷോൾഡ് വളരെ ഉയർന്ന ത്രെഷോൾഡ് അതുപോലെ ആരാണ് ഈ ഏർലി അഡോപ്റ്റെർസ് മാക്രോ ലെവെലിലോ റീജിയണൽ ലെവെലിലോ ദത്തെടുക്കലിന്റെ ശരാശരി സമയത്തേക്കാൾ നേരത്തെ ദത്തെടുക്കൽ സമയം ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാൾ കൂടുതലുള്ള വ്യക്തികളാണ് അതിനാൽ ഇവരെ ഏർലി ആൻഡ് ലേറ്റ് മജോറിറ്റി അഡോപ്റ്റെർസ് വിളിക്കുന്നു അത് കേന്ദ്ര ഘട്ടമാണ് അല്ലെങ്കിൽ ദത്തെടുക്കൽ സമയം ശരാശരിയേക്കാൾ മുമ്പും ശേഷവും ഒരു സ്റ്റാൻഡേർഡ് വ്യതിയാനത്താൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികൾ ശരാശരിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പിന്നീട് സ്വീകരിച്ച വ്യക്തികളാണ് ലാഗ്ഗാർഡുകൾ അതിനാൽ അവർ ക്രമീകരിച്ചത് ഇങ്ങനെയാണ് മൈക്രോ ലെവൽ അല്ലെങ്കിൽ നെയ്ബർഹുഡ് ലെവലിൽ വളരെ താഴ്ന്ന പരിധി താഴ്ന്ന പരിധി ഉയർന്ന പരിധി പിന്നാക്കാവസ്ഥ എന്നിവ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വ്യക്തിഗത നെറ്റ്വർക്ക് ത്രെഷോൾഡ് ഉണ്ട് അത് ആ സമയത്ത് ദത്തെടുക്കൽ നെറ്റ്വർക്ക് എക്സ്പോഷറായി നിർവചിക്കപ്പെടുന്നു ദത്തെടുക്കൽ എക്സ്പോഷർ എന്നത് ഒരു സമയത്ത് ഒരു വ്യക്തിയുടെ വ്യക്തി ശൃംഖലയിൽ ദത്തെടുക്കുന്നവരുടെ അനുപാതമാണ് അതിനാൽ ഈ സമയ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് മാത്രമേ 1 ഉള്ളൂ പിന്നെ 2 പിന്നെ 3 എന്നാൽ ഒടുവിൽ അത് ഒന്നിനെ സ്വാധീനിച്ചു അതിനാൽ ഇത് ഒരു വ്യക്തിയുടെ ശൃംഖലയിൽ ഒരു വ്യക്തിയുടെ ശൃംഖലയിലെ ദത്തെടുക്കുന്നവരുടെ അനുപാതത്തിലെ എക്സ്പോഷർ ആണ് അതിനാൽ സമയ വശം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അത് എങ്ങനെ ചലനാത്മകമാണ് അത് എങ്ങനെ പരാമീറ്ററുകളെ സ്വാധീനിക്കുന്നു ഈ വളരെ താഴ്ന്ന പരിധിയെക്കുറിച്ച് ഞാൻ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് വീണ്ടും ദത്തെടുക്കുന്നവരോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ത്രെഷോൾഡ് വാല്യൂ ശരാശരിയേക്കാൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ കൂടുതലുള്ള വ്യക്തിയോ അതുപോലെ തന്നെ താഴ്ന്ന പരിധി സ്വീകരിക്കുന്നവർക്കും ഉയർന്ന പരിധി സ്വീകരിക്കുന്നവർക്കും വ്യക്തിപരമായ സാമൂഹികതയുണ്ട് ഉയർന്ന ശരാശരിയേക്കാൾ താഴെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ബന്ധിപ്പിച്ച നെറ്റ്വർക്കുകൾ പിന്നീട് ഉയർന്ന നെറ്റ്വർക്ക് ത്രെഷോൾഡ് അഡോപ്റ്റേഴ്സിൽ അവരുടെ വ്യക്തിഗത നെറ്റ്വർക്ക് ത്രെഷോൾഡ് ശരാശരിയേക്കാൾ ഉയർന്ന ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട് അതിനാൽ ഇത് അവർ വികസിപ്പിച്ചെടുത്ത മാട്രിക്സ് ആണ് തുടർന്ന് മാക്രോ അല്ലെങ്കിൽ മൈക്രോ ലെവലിൽ ടാങ്ക് അഡോപ്റ്റേഴ്സ് വിതരണം നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ആദ്യകാല അഡോപ്റ്റേഴ്സ് 7 4 ആയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം അത് എങ്ങനെ മാറുന്നുവെന്നും 7 4 മുതൽ അത് മാറുന്നുവെന്നും 1 ലേക്ക് പോകുന്നു തുടർന്ന് ഇത് ഒരു തരത്തിൽ പോകുന്നത് ഇങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ അവർ ഇത്തരത്തിലുള്ള ഗ്രാഫ് നോക്കുകയും മേജർ ഏതൊക്കെയാണ് എന്ന് നോക്കുകയും ചെയ്തു പ്രധാനമായി സ്വാധീനിക്കുന്ന വശങ്ങൾ ഇപ്പോൾ അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന വശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇവിടെ വീണ്ടും 7 4 ൽ നിന്ന് ആദ്യകാല ദത്തെടുക്കുന്നയാളെ നോക്കുകയാണെങ്കിൽ അത് 2 7 ലേക്ക് പോകുന്നു അതിനാൽ ആദ്യകാല സ്വീകരിക്കുന്നവർ അത് ക്രമേണ കുറയുന്നു അതേസമയം ആദ്യകാല ഭൂരിപക്ഷം വർദ്ധിച്ചുവരുന്ന ഘടകത്തിലേക്ക് പോകുന്നു അതിനാൽ ഈ പയനിയർമാർ അഭിപ്രായ നിർമ്മാതാക്കളായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനാൽ ഇവർ ആരാണ് കാരണം അവിടെയാണ് കാരണം അവരുടെ അഭിപ്രായത്തിന് ഉയർന്ന മൂല്യമുള്ളതിനാൽ അത് ആദ്യം ഉപയോഗിച്ചത് അവരാണ് അഭിപ്രായ നേതാവിന്റെ സ്കോർ അതിനാൽ അവർ അഭിപ്രായ നേതൃത്വ ശൃംഖലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾ പലപ്പോഴും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്ന 3 വ്യക്തികളുടെ പേര് ദയവായി ഞങ്ങളോട് പറയുക അതിനാൽ നിങ്ങൾ ആരെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് ഇവർ ആരാണെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാണ് അവർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെയാണ് അവർ ഡിഗ്രി സെൻട്രലിറ്റി എന്ന ആശയം സ്വീകരിച്ചത് ഇത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ടെക്നിക് ആണ് അവിടെ ഡിഗ്രി ഒരു നോഡിന്റെ ഒരു ഡിഗ്രി എന്ന നിലയിൽ ഇത് ഒരു നോഡിന് ഉള്ള അവസരങ്ങളെയും ബദലുകളെയും ചിത്രീകരിക്കുന്നു ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഓരോ നോഡിനും ഒന്നിലധികം കണക്ഷനുകൾ ഉണ്ട് ഉയർന്ന ഡിഗ്രി സെൻട്രലിറ്റി ഉള്ള നോഡുകൾ കൂടുതൽ കേന്ദ്രമാണ് കാരണം അതിന് കൂടുതൽ കണക്ഷനുകൾ ഉണ്ട് അവിടെയാണ് അത് കൂടുതൽ കേന്ദ്രമാകുന്നത് അതിനാൽ ആരെങ്കിലും നമുക്ക് ഒരു സമൂഹത്തിൽ പറയട്ടെ ഒരു കമ്മ്യൂണിറ്റി ലീഡർ ഉപയോഗിച്ചു അപ്പോൾ സമൂഹം അവന്റെ ധാരണയിലോ തീരുമാനത്തിലോ ആശ്രയിക്കുന്ന ആളാണ് അയാളാണ് അതിനാൽ അവിടെയാണ് അത് കൂടുതൽ കേന്ദ്രമാകുന്നത് ഇത് വീണ്ടും ഞങ്ങൾ ഈ സമാനമായ മാട്രിക്സ് ഉണ്ടാക്കിയത് ഡിഗ്രി സെൻട്രലിറ്റിയും മാക്രോ ലെവലും മൈക്രോ ലെവലും ഉപയോഗിച്ച് അഭിപ്രായ നേതൃത്വ സ്കോർ മനസ്സിലാക്കുന്നതിനാണ് അതിനാൽ ഇവ ചില വിശകലനങ്ങളാണ് അതിനാൽ 6 ൽ നിന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യകാല ഭൂരിപക്ഷം ഏകദേശം 16 8 ആയിരുന്നു പിന്നീട് അത് കുറഞ്ഞു ആരാണ് ഈ പയനിയർമാർ വിവിധ ചാനലുകൾ എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസം ഇപ്പോൾ ഓരോ അക്കാദമിക് ക്ലാസിനും ഓരോ പോയിന്റും കണക്കാക്കുന്നു ഒന്നാം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്ക് 0 1 ലഭിക്കുന്നു ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവർക്ക് 0 50 ആണ് നിരക്ഷരർക്ക് ഈ സ്കോർ 0 ആണ് വരുമാനം പോലെ വീട്ടിലെ പ്രതിമാസ വരുമാനം വീണ്ടും ദത്തെടുക്കുന്നവരുടെ സാമൂഹിക സാമ്പത്തിക സവിശേഷതകൾ വരുമാനം എങ്ങനെ ഒരു പ്രധാന പങ്ക് വഹിച്ചു അത് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടോ കാരണം ആരെങ്കിലും അതിന്റെ താങ്ങാനാവുന്ന വശം വീണ്ടും വീണ്ടും നോക്കേണ്ടതുണ്ട് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വൈകി സ്വീകരിക്കുന്നവർ ഇത് വീണ്ടും ഒരു മൈക്രോ ലെവലിലാണ് അത് പോകുന്നു വരുമാനവും ഒരു നല്ല വശം കാണിച്ചു വീണ്ടും വിദ്യാഭ്യാസം ഇത് എങ്ങനെ കളിക്കുന്നു അത് വ്യക്തിഗത തീരുമാനമെടുക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നു ഞങ്ങൾ ആദ്യകാല ദത്തെടുക്കുന്ന ഘട്ടമുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിധി ഏകദേശം 11 54 ഉം പിന്നിലുള്ളത് 13 5 ഉം ആണ് കൂടാതെ ബാഹ്യ സ്വാധീനം അവർ മാധ്യമ ഉപഭോഗത്തെക്കുറിച്ചും വിശ്വമാനവികതയെക്കുറിച്ചും സംസാരിക്കുന്നു ഈ നൂതന വശത്തെക്കുറിച്ച് ആളുകൾക്ക് എങ്ങനെ അറിയാം എന്നത് ടിവിയിലെ പോലെ ഒരു ചാനലാണ് എന്നാൽ ഇവിടെ ഈ പഠന ടിവിയിൽ സ്കോർ ഉണ്ട് അവർ ചില പോയിന്റുകളും നൽകിയിട്ടുണ്ട് നിങ്ങൾ ആഴ്ചയിൽ എത്ര തവണ ടിവി ന്യൂസ് പ്രോഗ്രാമുകൾ കാണുന്നു അതിനാൽ 1 പോയിന്റ് ടിവി കാണുന്നതിന് പരാമർശിക്കുന്നു ആഴ്ചയിൽ ഒരിക്കൽ ആഴ്ചയിൽ 7 0 എന്നത് കാണാത്തവരാണ് എന്നാൽ ഈ കണ്ടെത്തലിൽ ടിവി കാണുന്നതിനുപകരം പത്രവായന നിങ്ങൾക്ക് കൂടുതൽ വ്യതിചലിക്കുന്ന പ്രക്രിയയെ അറിയാൻ സഹായിച്ചതായി അവർ കണ്ടെത്തി ഏറ്റവും അടുത്തുള്ള നഗരം എങ്ങനെ സന്ദർശിക്കുന്നു അടുത്തുള്ള നഗരങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതാണ് വിശ്വമാനവികത മാധ്യമ ഉപഭോഗം ടിവി കാണൽ എന്നിവയും ഒരു പ്രധാന വശമാണ് എന്നാൽ ഇവിടെ പത്രവായന കൂടുതൽ നല്ല ആശയവിനിമയ മാർഗങ്ങൾ കാണിച്ചുതരുന്നു അതിനാൽ അതേ മാട്രിക്സ് വ്യത്യസ്ത വശങ്ങളിൽ പരീക്ഷിച്ചു കുടിവെള്ളത്തിന്റെ 3 വശങ്ങളെക്കുറിച്ചുള്ള ദത്തെടുക്കുന്നവരുടെ ധാരണകളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന അപകടസാധ്യത കണക്കാക്കുന്നത് കാരണം ഈ ടാങ്ക് ഉള്ള ഈ പ്രത്യേക ടാങ്ക് എങ്ങനെ മെച്ചപ്പെട്ടുവെന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തിന്റെ കുടിവെള്ള ഗുണനിലവാരത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ അവർ നല്ലതു മുതൽ ദരിദ്രർ വരെ സംസാരിച്ചു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനാൽ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഈ മുഴുവൻ പ്രക്രിയയും അവർ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന്റെ ദൈനംദിന ഭാരവും പിന്നെ വീണ്ടും അവർ എല്ലാം ഇത്തരത്തിലുള്ള മാട്രിക്സിൽ ധാരണയിൽ മാപ്പ് ചെയ്തു റിസ്ക് പെർസെപ്ഷനും മാപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചത് ഈ നൂതനത്വത്തിന്റെ പ്രാരംഭ ഉപയോഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ സംഭവിച്ചത് ഈ നൂതന പ്രവർത്തകരാണ് അവിടെ ഒരു പ്രധാന പയനിയർ ഉണ്ടായിരുന്നു അവർ ഇത് എങ്ങനെ മൊത്തത്തിൽ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ് ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ധാരണ വളരെ സൂക്ഷ്മതല ശൃംഖലയിൽ നിന്നും മാക്രോ ലെവൽ ശൃംഖലയിലേക്കും ആരംഭിച്ച് വിശാലമായ ഒരു കമ്മ്യൂണിറ്റിയിലേക്കും ഒരു വലിയ ശൃംഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ഇത് എങ്ങനെ ശ്രദ്ധിക്കണം ഇത് അവർ സ്വീകരിച്ച ഒരു രീതിയാണ് പക്ഷേ വ്യത്യസ്ത വഴികളുണ്ട് നൂതന സമ്പ്രദായങ്ങളുടെ വ്യാപനത്തിൽ ഈ പ്രത്യേക പയനിയർമാർ എങ്ങനെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതിന്റെ വിവിധ രീതികളുടെ കേന്ദ്രീകൃതത നിങ്ങൾക്കറിയാവുന്ന ബിരുദം അതിന്റെ പരിധികൾ സജ്ജീകരിക്കൽ എന്നിവ യഥാർത്ഥത്തിൽ പരിശോധിക്കാൻ കഴിയും